സ്വാഗതം ഇനി നമുക് റൂട്ടിംഗ് നെ കുറിച്ചു ചർച്ച ചെയ്യാം നമ്മൾ മുന്നേ തന്നെ ഫ്ലോർ പ്ലാനിംഗ് പ്ലേസ്മെന്റ് പാർട്ടീഷനിങ് തുടങ്ങിയവയെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് റൂട്ടിംഗ് എന്നും റൂട്ടിംഗ് ന്റെ പല രീതികളും ആണ് നമുക്ക് ഗ്രിഡ് റൂട്ടിംഗ് ഇൽ തുടങ്ങാം അതിനു മുമ്പ് റൂട്ടിംഗ് എന്താണെന്ന് പറയാം സെൽ പ്ലേസ്മെന്റ് നു ശേഷം അതായത് സെല്ലുകൾ എല്ലാം സിലിക്കൺ ഫ്ലോറിൽ വച്ചതിനു ശേഷം നെറ്റിന്റെ സ്പെസിഫിക്കേഷൻ അനുസരിചു പിന്നുകളെ തമ്മിൽ കണക്ട് ചെയ്യണം ഇതാണ് റൂട്ടിംഗ് റൂട്ടിംഗ് കഴിഞ്ഞാൽ പിന്നെ ചെയുന്നത് പിന്നുകളെ തമ്മിൽ കണക്ട് ചെയ്യാനുള്ള വയറുകൾ പോകേണ്ടുന്ന വഴി തീരുമാനിക്കുക എന്നതാണ് സാധാരണയായി റൂട്ടിംഗ് നടത്തുന്നത് സിലിക്കൺ ലെ മെറ്റൽ ലയേറുകളിൽ ആണ് അതിനാൽ പുതിയ വി എൽ എസ് ഐ ടെക്നോളജിയിൽ പിന്നുകൾ കണക്ട് ചെയ്യാൻ പറ്റിയ കുറെ മെറ്റൽ ലയേറുകൾ ഉണ്ട് ഇപ്പോൾറൂട്ടിംഗ് പ്രധാനമാണ് പക്ഷെ ഒരു സാധാരണ ചിപ്പിലെ ഇന്റർ കണക്ഷനുകൾ നമ്മെ ഏകദേശം 30 ശതമാനമോ അതിലധികമോ ഡിസൈൻ സമയവും അതിലധികമുള്ള പ്രദേശവും എത്തിക്കും അതിനാൽ റൂട്ടിംഗ് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പ്രശ്നമാണ് കൂടാതെ ഒരു നല്ല പ്ലെയ്സ്മെന്റും തുടർന്ന് ഒരു നല്ല റൂട്ടിംഗ് ഘട്ടവും നമുക്ക് ചെറിയ ഡിസൈൻ സമയങ്ങൾ മാത്രമല്ല ഒതുക്കമുള്ള ലേഔട്ട് ഏരിയയും നൽകും അതിനാൽ വയറുകൾ വിന്യസിക്കുന്നതിന് ആവശ്യമായ മൊത്തം വിസ്തീർണ്ണം കുറയ്ക്കുക എന്നതാണ് റൂട്ടിംഗിന്റെ പ്രധാന ലക്ഷ്യം നമ്മൾ 3 വ്യത്യസ്ത തരം റൂട്ടിംഗിനെക്കുറിച്ച് സംസാരിക്കും അതിനാൽ ഈ 3 വ്യത്യസ്ത റൂട്ടിംഗ് പ്രക്രിയകൾ എന്താണെന്ന് നമുക്ക് ചുരുക്കത്തിൽ നോക്കാം ഇപ്പോൾ അടിസ്ഥാന പ്രശ്നം ഒന്നുതന്നെയാണ് ഞങ്ങൾക്ക് ഒരു കൂട്ടം ബ്ലോക്കുകളോ മൊഡ്യൂളുകളോ ഉണ്ട് അവ ഒരു ഉപരിതലത്തിൽ 2 ഡൈമൻഷണൽ ഉപരിതലത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു അവയ്ക്ക് കുറുകെ ചില പിന്നുകൾ പരസ്പരം ബന്ധിപ്പിക്കേണ്ടതുണ്ട് ഈ പ്രശ്നത്തെ 3 ക്ലാസുകളായി അല്ലെങ്കിൽ വിഭാഗങ്ങളായി തിരിക്കാം ഒന്ന് ഏരിയ റൂട്ടിംഗ് അല്ലെങ്കിൽ ഗ്രിഡ് റൂട്ടിംഗ് എന്ന് വിളിക്കുന്നു ഇവിടെ ബ്ലോക്കുകൾ പരസ്പരബന്ധങ്ങൾക്കും ലൈനുകൾ പ്രവർത്തിപ്പിക്കുന്നതിനും ബന്ധിപ്പിക്കേണ്ട ഒരു കൂട്ടം പിന്നുകൾക്കും ഉപയോഗിക്കാൻ കഴിയില്ല എന്ന അർത്ഥത്തിൽ തടസ്സങ്ങളായി കണക്കാക്കാം പിന്നുകൾ പരസ്പരം ബന്ധിപ്പിക്കുന്നതിന് ഒരു നല്ല പാത കണ്ടെത്തണമെന്നും മുഴുവൻ വയറിംഗും ഒരൊറ്റ പാളിയിൽ പൂർത്തിയാക്കണമെന്നും ഗ്രിഡ് റൂട്ടിംഗ് പറയുന്നു ഇത് വളരെ നിർദ്ദിഷ്ട ആവശ്യകതയാണ് ഗ്ലോബൽ റൂട്ടിംഗും വിശദമായ റൂട്ടിംഗും കൈകോർത്തുപോകുന്നു നിരവധി മൊഡ്യൂളുകളോ ബ്ലോക്കുകളോ ഉള്ള ചിപ്പുകളിലെ കൂടുതൽ സങ്കീർണമായ പ്രശ്നത്തിന് ഗ്ലോബൽ റൂട്ടിംഗ് പറയുന്നു പരസ്പരം ബന്ധിപ്പിക്കുന്നതിന് ധാരാളം സജ്ജീകരിച്ച പിൻകൾ ഉണ്ട് അതിനാൽ ഓരോ ഇന്റർ കണക്ഷൻ വലകൾക്കും വലകൾ കടന്നുപോകേണ്ട പ്രദേശങ്ങളുടെ ഏകദേശ ശ്രേണി നിർണ്ണയിക്കാൻ ശ്രമിക്കും ഈ പ്രക്രിയ പൂർത്തിയായിക്കഴിഞ്ഞാൽ ഓരോ പ്രദേശത്തിനും പരസ്പരബന്ധം അല്ലെങ്കിൽ വയറിംഗ് ആവശ്യകതകളുടെ പൂർണ്ണമായ വിശദീകരണം ഞങ്ങൾക്കുണ്ട് അതിനാൽ ഇപ്പോൾ വിശദമായ റൂട്ടിംഗിന്റെ ഘട്ടത്തിൽ ആ റൂട്ടിംഗ് മേഖലകളിൽ ഞങ്ങൾ കൃത്യമായ തിരശ്ചീനവും ലംബവുമായ ലോഹ ഭാഗങ്ങൾ നൽകുന്നു ഇന്റർ കണക്ഷനുകൾ പൂർത്തിയാക്കാൻ അതിനാൽ പൊതുവായ റൂട്ടിംഗ് പ്രശ്നം നിങ്ങൾക് ഇതുപോലെ ദൃശ്യവത്കരിക്കാവുന്നതാണ് നിങ്ങൾക്ക് അതിരുകളിൽ പിന്നുകളുള്ള ഒരു കൂട്ടം ബ്ലോക്കുകൾ ഉണ്ട് നിങ്ങൾക്ക് ബന്ധിപ്പിക്കേണ്ട ഒരു കൂട്ടം സിഗ്നൽ വലകൾ ഉണ്ട് ഈ ബ്ലോക്കുകൾ ഇതിനകം സ്ഥാപിച്ചിരിക്കുന്നു ലേ ഔട്ട് ഉപരിതലത്തിലെ ബ്ലോക്കുകളുടെ സ്ഥാനങ്ങൾ തീർച്ചയായും അനുയോജ്യമായ പാതകൾ കണ്ടെത്തുക എന്നതാണ് ലക്ഷ്യം അതിലൂടെ നിങ്ങൾക്ക് ആവശ്യാനുസരണം പിൻസ് ബന്ധിപ്പിക്കുന്നതിന് വയറുകൾ പ്രവർത്തിപ്പിക്കാൻ കഴിയും പക്ഷെ നിങ്ങൾ ചില വസ്തുനിഷ്ഠ മാനദണ്ഡങ്ങൾ ചുരുക്കേണ്ടതുണ്ട് ഇപ്പോൾ സാഹചര്യത്തെ ആശ്രയിച്ച് നിങ്ങളുടെ മുൻഗണനകളെ ആശ്രയിച്ച് വസ്തുനിഷ്ഠമായ മാനദണ്ഡം വ്യത്യസ്തമായിരിക്കാം അതിനാൽ ആളുകൾ അഭിസംബോധന ചെയ്യാൻ ശ്രമിച്ചതും ഒപ്റ്റിമൈസ് ചെയ്യാൻ ശ്രമിച്ചതുമായ ചില സുപ്രധാന വസ്തുനിഷ്ഠ മാനദണ്ഡങ്ങൾ നമുക്ക് നോക്കാം റൂട്ടിംഗ് ലയേറുകളുടെ എണ്ണം അല്ലെങ്കിൽ വയറുകളുടെ വീതി കുറച്ചു കൊണ്ട് റൂട്ടിംഗ് ഏരിയ കുറക്കാൻ നിങ്ങൾ ശ്രമിച്ചേക്കാം ഉദാഹരണത്തിന് ഏറ്റവും നല്ല കാര്യം ചെയ്യാൻ പറ്റുന്നത് റൂട്ടിംഗ് ഒരു ലയേറിൽ തീർക്കാം എന്നതാണ് പക്ഷെ അത് നടക്കില്ല റ്റ്യൂട്ടിങ്ങിനു 2 ലയേറുകൾ എങ്കിലും വേണം നിങ്ങൾക്ക് 2 ലെയറുകളിൽ കൂടുതൽ ലഭ്യമാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കോംപാക്റ്റ് അല്ലെങ്കിൽ ഏരിയ കാര്യക്ഷമമായ റൂട്ടിംഗ് ഉണ്ടായിരിക്കാം ലെയറുകളിലുടനീളമുള്ള പരസ്പരബന്ധത്തിന്റെ പ്രശ്നം ചിത്രത്തിൽ വരുന്നു അതാണ് പരിഹരിക്കേണ്ട മറ്റൊരു പ്രശ്നം തീർച്ചയായും അവസാന പോയിന്റ് വളരെ പ്രധാനമാണ് പിന്നീട് ഇത് പ്രത്യേകമായി കൈകാര്യം ചെയ്യും അതിനാൽ നമുക്ക് ഇപ്പോൾ ഏരിയ റൂട്ടിംഗ് അല്ലെങ്കിൽ ഗ്രിഡ് റൂട്ടിംഗ് പ്രശ്നത്തിലേക്ക് വരാം ഗ്രിഡ് റൂട്ടിംഗ് എന്താണ് പറയുന്നത് ലേ ഔട്ട് ഉപരിതലം ഒരു ചതുരാകൃതിയിലുള്ള ഗ്രിഡ് കോശങ്ങളാൽ നിർമ്മിച്ചതാണെന്ന് കരുതപ്പെടുന്നു അതിനാൽ ഇത് ഇതുപോലുള്ള ഒന്നാണ് ഇതുപോലെ ചതുരാകൃതിയിലുള്ള ലേഔട്ട് ഉപരിതലം ഉണ്ട് അതിനാൽ മൊത്തം വിസ്തീർണ്ണം വരികളിലും നിരകളിലും ക്രമീകരിച്ചിരിക്കുന്ന ചില ഗ്രിഡ് സെല്ലുകളായി വിഭജിക്കപ്പെട്ടിട്ടുണ്ടെന്ന് അനുമാനിക്കുന്നു ഇപ്പോൾ എല്ലാ ലൈനുകളും ബ്ലോക്കുകളും ഈ ഗ്രിഡ് സെല്ലുകളുമായി വിന്യസിക്കപ്പെടും ഉദാഹരണത്തിന് ഇവിടെ ഒരു ബ്ലോക്ക് സ്ഥാപിക്കണമെന്ന് കരുതുക അതിനാൽ ഇത് ഈ ഗ്രിഡ് സെല്ലുമായി വിന്യസിക്കും ഇത് ഞാൻ സ്ഥാപിച്ച ഒരു ബ്ലോക്കാണ് ഇപ്പോൾ ചില ഇന്റർകണക്ഷൻ ലൈനുകൾ പ്രവർത്തിപ്പിക്കണമെന്നു കരുതുക നമുക്ക് ചില ഉദാഹരണങ്ങൾ എടുക്കാം ഇതുപോലൊരു ലൈൻ പ്രവർത്തിപ്പിക്കണം ഇത് 1 ഇന്റർകണക്ഷൻ ലൈൻ ആണ് ഇതുപോലുള്ള മറ്റൊരു ഇന്റർ കണക്ഷൻ ലൈൻ പ്രവർത്തിപ്പിക്കണം ഇപ്പോൾ സിലിക്കണിന്റെ ഉപരിതലത്തിൽ ഒരേ പാളിയിൽ ഒരു കൂട്ടം ലൈനുകൾ പ്രവർത്തിപ്പിക്കുമ്പോൾ അവ സമാന്തരമായി പ്രവർത്തിക്കുന്നുവെന്ന് കരുതുക അപ്പോൾ നിങ്ങൾ ചില മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട് ഈ വരികളുടെ ഏറ്റവും കുറഞ്ഞ വീതി നിയന്ത്രണങ്ങൾ നിറവേറ്റേണ്ടതുണ്ട് ഇവ സാധാരണയായി λ എന്ന അടിസ്ഥാന ദൈർഘ്യത്തിൽ പ്രകടിപ്പിക്കുന്നു ഇതിനെ ഫീച്ചർ സൈസ് എന്ന് വിളിക്കുന്നു ഈ വീതി നിയന്ത്രണം 3 വരികൾക്കിടയിലുള്ള വേർതിരിവ് ആണെന്ന് പറയട്ടെ 2 വരികൾ ആകാം 3λ ആകാം അതിനാൽ തൃപ്തിപ്പെടേണ്ട നിയന്ത്രണങ്ങൾ ഇവയാണ് ഗ്രിഡ് പ്രാതിനിധ്യത്തിൽ ഓരോ ഗ്രിഡിന്റെയും വലുപ്പം അതിലുള്ള ഓരോ ലൈനുകളും ഉൾക്കൊള്ളാവുന്ന വിധത്തിൽ ആയിരിക്കണം ഇങ്ങനെ അടുത്തടുത്ത രണ്ടു ഗ്രിഡ് സെല്ലുകൾ ഉണ്ടെങ്കിൽ ലൈനുകളുടെ വീതിയും കണക്കാക്കാതെ രണ്ടു ലൈനുകൾ സമാന്തരമായി അടങ്ങിയിരിക്കും ഗ്രിഡ് സെല്ലുകൾ വലുതായിരിക്കണം ഈ ഉദാഹരണത്തിൽ ഗ്രിഡ് സെല്ലിന്റെ വീതി കുറഞ്ഞത് 5λ ആയിരിക്കണം അതിനാൽ ഗ്രിഡിലെ ഈ സെല്ലുകൾ അവ പ്രതിബന്ധങ്ങൾ അല്ലെങ്കിൽ ഇന്റർ കണക്ഷൻ ആയി ആയി പ്രതിനിധീകരിക്കുന്നു അതിലൂടെ നമുക്ക് പരസ്പരബന്ധം പ്രവർത്തിപ്പിക്കാൻ കഴിയും 2 ഡൈമൻഷണൽ പ്രതലങ്ങളിൽ ഇതിനകം സ്ഥാപിച്ചിട്ടുള്ള ചില ബ്ലോക്കുകൾ പോലെ അവ തടസ്സങ്ങളായി പ്രവർത്തിക്കാൻ കഴിയും അതിനാൽ ഞങ്ങൾ അവയെ ഗ്രിഡിൽ ഇരുണ്ട നിറത്തിൽ വർണ്ണിച്ചുകൊണ്ട് കാണിക്കും കൂടാതെ ഇതിനകം സ്ഥാപിച്ചിട്ടുള്ള ചില നെറ്റുകൾ അവയും തടസ്സങ്ങളായി കാണിക്കപ്പെടും കാരണം നെറ്റുകളുടെ ഭാവി കണക്ഷനായി നമ്മൾ ഇതിനകം സ്ഥാപിച്ചിട്ടുള്ള നെറ്റുകൾ കടക്കരുത് ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ റൂട്ടിംഗ് ഉപപ്രശ്നത്തിൽ ഒരു ലെയർ പാത്ത് കണ്ടെത്താൻ ശ്രമിക്കുന്നു അതിനർത്ഥം നമ്മൾ ഒരു ലോഹ പാളിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് കടക്കുന്നില്ല എന്നാണ് അതിനാൽ 2 ഡൈമൻഷണൽ ഗ്രിഡിൽ 2 പോയിന്റുകൾ നൽകി ഉറവിട പോയിന്റിൽ നിന്ന് ലക്ഷ്യസ്ഥാനത്തേക്കോ ടാർഗെറ്റ് പോയിന്റിലേക്കോ ബന്ധിപ്പിക്കുന്നതിനുള്ള ഗ്രിഡ് സെല്ലുകളുടെ ക്രമം ഞങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ പ്രശ്നം ഇതുപോലെ കാണാൻ കഴിയും അതിനാൽ ഈ ഇരുണ്ട ബ്ലോക്കുകൾ നിങ്ങൾക്ക് വയറുകൾ ഇടാൻ കഴിയാത്ത തടസ്സത്തെ പ്രതിനിധാനം ചെയ്യുന്ന സെല്ലിന്റെ 2 ഡൈമൻഷണൽ അറേ ഞങ്ങൾ ഇവിടെ കാണിച്ചിരിക്കുന്നു എനിക്ക് ബന്ധിപ്പിക്കേണ്ട ഒരു സ്രോതസ്സും ഒരു ടാർഗെറ്റ് പോയിന്റും ഉണ്ടെന്ന് കരുതുക ചില റൂട്ടിംഗ് അൽഗോരിതം ഇതുപോലൊരു പാത കണ്ടെത്തി അത് ഷേഡുള്ളതായി കാണിക്കുന്നു പിന്നീട് എസ് ടി എന്ന മറ്റൊരു കൂട്ടംപോയിന്റുകൾ ഉണ്ടായിരിക്കാം അത് ഞങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ആ സമയത്ത് ഈ ഷേഡുള്ള പോയിന്റുകൾ തടസ്സങ്ങളായി കണക്കാക്കപ്പെടും കാരണം അവ ഇതിനകം ഇവിടെ ഒരു ലൈൻ തയ്യാറാക്കിയിട്ടുണ്ട് അതിനാൽ ഈ കോശങ്ങൾ മറ്റ് ജോഡി ലൈനുകൾ സ്ഥാപിക്കാൻ ലഭ്യമല്ല ഇപ്പോൾ ഗ്രിഡ് റൂട്ടിംഗ് അൽഗോരിതങ്ങൾ പ്രധാനമായും നമ്മൾ കാണുന്നതുപോലെ മാസ് റൂട്ടിംഗ് ലൈൻ സെർച്ച് അൽഗോരിതങ്ങൾ എന്നിങ്ങനെ തരം തിരിക്കാം ഇപ്പോൾ ഗ്രിഡ് റൂട്ടിംഗ് അൽഗോരിതങ്ങളെ പ്രധാനമായും മാസ് ആയി തരംതിരിക്കാം അതിനാൽ ഇപ്പോൾ പറഞ്ഞതുപോലെ 2 ഡൈമൻഷണൽ സ്പേസ് ഗ്രിഡുകളായി അല്ലെങ്കിൽ സെല്ലുകളായി വിഭജിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഞങ്ങൾ കരുതുന്നു അതിനാൽ സാധാരണയായി ഉപയോഗിക്കുന്ന 2 അൽഗോരിതം ലീയുടെ അൽഗോരിതംLee's algorithm ഹാഡ്ലോക്കിന്റെ അൽഗോരിതംHadlock's algorithm എന്നിവ ചർച്ച ചെയ്യപ്പെടും തുടർന്ന് ഞങ്ങൾ ലൈൻ സെർച്ച് അൽഗോരിതത്തിലേക്ക് നീങ്ങും അത് കണക്കുകൂട്ടൽ സമയത്തിന്റെ കാര്യത്തിൽ കൂടുതൽ കാര്യക്ഷമതയുള്ളതാണെന്ന് നമുക്ക് കാണാം അതിനാൽ ഇവിടെയും ഞങ്ങൾ കുറച്ച് അൽഗോരിതങ്ങൾ നോക്കുന്നു ഒടുവിൽ സ്റ്റെയ്നർ ട്രീ അടിസ്ഥാനമാക്കിയുള്ള സമീപനങ്ങളെക്കുറിച്ച് ഒരു ഹ്രസ്വ നോട്ടം ചർച്ചചെയ്യും ഇപ്പോൾ മെയ്സ് റണ്ണിംഗ് അൽഗോരിതം ഉപയോഗിച്ച് ആരംഭിക്കുമ്പോൾ ഇവിടെ മുഴുവൻ റൂട്ടിംഗ് ഉപരിതലവും പ്രതിനിധീകരിക്കുന്നത് സെല്ലുകളുടെ 2 ഡൈമൻഷണൽ ഗ്രിഡ് ആണ് ഈ കാര്യങ്ങൾ ഇതിനകം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് എല്ലാ പിന്നുകളും എല്ലാ ഇന്റർകണക്ഷൻ വയറുകളും ബ്ലോക്കുകളുടെ ബോണ്ടിംഗ് ബോക്സുകളായ തടസ്സങ്ങളും ഇവയെല്ലാം ഗ്രിഡ് ലൈനുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് അനുമാനിക്കാം നിങ്ങൾക്ക് 2 ഡൈമൻഷണൽ ഗ്രിഡ് സെല്ലുകൾ ഉണ്ടെങ്കിൽ എല്ലാം ഗ്രിഡ് ലൈനുകളിലേക്ക് തിരശ്ചീനമായും ലംബമായും വിന്യസിക്കും നിങ്ങൾക്ക് ഒരു ബ്ലോക്ക് സ്ഥാപിക്കാൻ കഴിയില്ല അങ്ങനെ അത് പകുതി സെൽ മൂടുകയും പകുതി സെൽ മൂടാതിരിക്കുകയും ചെയ്യുന്നു അങ്ങനെയല്ല സെല്ലുകളുടെ ലംബവും തിരശ്ചീനവുമായ അതിരുകളുമായി ബന്ധപ്പെട്ട് എല്ലാം വിന്യസിക്കേണ്ടതുണ്ട് അതിനാൽ സെല്ലുകളുടെ വലുപ്പം ഉചിതമായ രീതിയിൽ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് അവ പ്രവർത്തിക്കുമ്പോൾ വയറുകൾ ഉൾക്കൊള്ളാൻ ഞാൻ പറഞ്ഞതുപോലെ അവ വലുതായിരിക്കണം കൂടാതെ മുഴുവൻ വയർ സ്പേസിംഗും അങ്ങനെ 2 വയറുകൾകുറഞ്ഞ വേർതിരിക്കൽ നിയന്ത്രണ ലംഘനമില്ലാതെ സമാന്തരമായി പ്രവർത്തിക്കാൻ കഴിയും അതിനാൽ വയറുകൾ പ്രവർത്തിക്കുന്ന സെഗ്മെന്റും ഞാൻ പറഞ്ഞതുപോലെ വിന്യസിച്ചിരിക്കുന്നു ഗ്രിഡ് സെല്ലുകളുടെ വലുപ്പം ഉചിതമായി നിർവചിച്ചിരിക്കുന്നു അതിനാൽ വിവിധ വലകൾക്കുള്ള വയറുകൾ അടുത്തുള്ള സെല്ലുകളിലൂടെ റൂട്ട് ചെയ്യാൻ കഴിയും ഞങ്ങൾ ശരിയായ അളവെടുപ്പ് നടത്തുകയാണെങ്കിൽ ലൈനുകളുടെ വീതിയും അകലവും സംബന്ധിച്ച ഞങ്ങളുടെ നിയന്ത്രണങ്ങൾ ലംഘിക്കപ്പെടില്ലെന്ന് ഉറപ്പാണ് കൂടാതെ ഈ മെയ്സ് റൂട്ടറുകൾ തീർച്ചയായും ഒരു സമയത്ത് ഒരു ജോടി പോയിന്റുകൾ ബന്ധിപ്പിക്കുന്നു ഈ നിയന്ത്രണം എങ്ങനെയാണെന്ന് നമുക്ക് പിന്നീട് കാണാം ഒഴിവാക്കാം നമുക്ക് മൾട്ടി പോയിന്റ് വലകളും ഉണ്ടാകും അതിനാൽ നമുക്ക് പ്രക്രിയ നോക്കാം തുടർന്ന് ഒരു ഉദാഹരണത്തിന്റെ സഹായത്തോടെ ഞങ്ങൾ അത് ചിത്രീകരിക്കും അതിനാൽ ലീയുടെ അൽഗോരിതം Lee's algorithm ഏറ്റവും അടിസ്ഥാനപരവും ക്ലാസിക്കൽ മെയ്സ് റൂട്ടിംഗ് അൽഗോരിതം ആണ് ഇത് ആശയത്തിൽ വളരെ ലളിതമാണ് കൂടാതെ വളരെ രസകരമായ ചില സ്വഭാവവിശേഷങ്ങൾ എസ് ടി എന്നീ ജോഡികൾക്കിടയിൽ ഒരു പാത നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് എല്ലായ്പ്പോഴും ആയിരിക്കും കണ്ടെത്തി ലീയുടെ അൽഗോരിതംLee's algorithm സാധ്യമായ ഏറ്റവും ചുരുങ്ങിയ പാത കണ്ടെത്താൻ ഉറപ്പുനൽകുന്നു എന്ന് മാത്രമല്ല അടിസ്ഥാനപരമായി ഇത് ആദ്യ തിരച്ചിൽ ഉപയോഗിക്കുന്നു സ്റ്റാർട്ട് പോയിന്റ് എസ് മുതൽ ഒരു തിരമാല മുന്നേറുന്നത് പോലെ തൊട്ടടുത്തുള്ള എല്ലാ സെല്ലുകളുടെയും തലങ്ങൾ പര്യവേക്ഷണം ചെയ്തുകൊണ്ട് ഒരു വിശാലമായ ആദ്യ തിരച്ചിൽ നടത്താൻ ഇത് ശ്രമിക്കുന്നു അതിനാൽ ഒരു ശബ്ദത്തിന്റെ ഉറവിടം സങ്കൽപ്പിക്കുക നിങ്ങൾ ഒരു വൈബ്രേഷൻ ഉണ്ടാക്കുന്നു ശബ്ദ തരംഗങ്ങൾ എല്ലാ ദിശകളിലും വേവ് ഫ്രണ്ടുകളുടെ രൂപത്തിൽ പുറപ്പെടുവിക്കാൻ തുടങ്ങുന്നു തരംഗ മുന്നണികൾ എല്ലാ ദിശകളിലേക്കും നീങ്ങുന്നതുപോലെ അത് ലക്ഷ്യസ്ഥാനം സ്പർശിക്കുകയോ കണ്ടെത്തുകയോ ചെയ്യുന്നതുവരെ നിങ്ങൾക്ക് തുടരാം അതിനാൽ ഇത് വേവ് ഫ്രണ്ടിന്റെ ഏറ്റവും കുറഞ്ഞ ദൂരം ആണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ടാർഗെറ്റ് പോയിന്റായ ടി പോയിന്റിൽ എത്താൻ അതിനാൽ ടി എസ് എന്നിവ ബന്ധിപ്പിക്കാൻ കഴിയുന്ന റൂട്ട് നിങ്ങൾക്ക് നിർണ്ണയിക്കാനോ കണ്ടെത്താനോ കഴിയുന്നത് ഇതാണ് അടിസ്ഥാന ആശയം ഈ അൽഗോരിതത്തിന്റെ അത്ര നല്ലതല്ലാത്ത ചില സവിശേഷതകൾ സമയ സങ്കീർണ്ണത ഒരു N × N ഗ്രിഡിന് Ο ആണ് അതിനാൽ നിങ്ങൾക്ക് Ο സമയം ആവശ്യമാണ് സ്ഥലത്തിന്റെ സങ്കീർണ്ണത മാത്രമല്ല Ο കാരണം നിങ്ങൾ അൽഗോരിതം പ്രവർത്തിപ്പിക്കുന്ന ഒരു ഡാറ്റ ഘടനയായി മുഴുവൻ ഗ്രിഡ് 2 ഡൈമൻഷണൽ ഗ്രിഡിനെയും ഞങ്ങൾ പ്രതിനിധീകരിക്കുന്നു അതിനാൽ സമയവും സ്ഥല സങ്കീർണ്ണതയും ഏറ്റവും മോശമായ സാഹചര്യത്തിൽ Ο ആണ് അതിനാൽ ഈ അൽഗോരിതം വിശാലമായി 3 ഘട്ടങ്ങൾ ഉൾക്കൊള്ളുന്നു ഘട്ടം 1 തരംഗ പ്രചരണ ഘട്ടം പറയുന്നു ഇതൊരു ആവർത്തന പ്രക്രിയയാണ് അതിനാൽ എന്താണ് ചെയ്യുന്നത് ഘട്ടം i സമയത്ത് ഞാൻ 1 ൽ ആരംഭിക്കുന്നു 1 2 3 ഈ രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് അതിനാൽ ഗ്രിഡ് സെൽ S ൽ നിന്ന് മാൻഹട്ടൻ അകലെയുള്ള ഗ്രിഡ് സെല്ലുകളെല്ലാം ഞാൻ i എന്ന് ലേബൽ ചെയ്തിരിക്കുന്നു ഇത് എന്താണ് അർത്ഥമാക്കുന്നത് ഒരു ലളിതമായ ഡയഗ്രം ഉപയോഗിച്ച് ഞാൻ ചിത്രീകരിക്കട്ടെ നിങ്ങൾക്ക് ഒരു ലളിതമായ 4 ബൈ 4 ഗ്രിഡ് സെൽ ഉണ്ടെന്ന് കരുതുക പോയിന്റ് എസ് ഇവിടെ ഉണ്ടെന്ന് പറയട്ടെ അതിനാൽ ഈ പ്രക്രിയ എന്താണ് പറയുന്നത് സ്പെക്ക് i ൽ മാൻഹട്ടൻ അകലെയുള്ള എല്ലാ സെല്ലുകളും നമ്മൾ i 1 ൽ ആരംഭിക്കും S ൽ നിന്നുള്ള i ന്റെ ദൂരം i എന്ന മൂല്യത്തിൽ ലേബൽ ചെയ്യപ്പെടും അതിനാൽ 1 മാൻഹട്ടൻ ദൂരം പോലെ ലേബൽ ചെയ്തിരിക്കുന്ന 4 സെല്ലുകൾ ഇവിടെ ഇവിടെ ഇവിടെ ഇവിടെ അവയെല്ലാം ഒരെണ്ണം ഉപയോഗിച്ച് ലേബൽ ചെയ്തിരിക്കുന്നു അപ്പോൾ ഞങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുന്നു i 2 നിങ്ങൾ അയൽവാസികളിലേക്ക് പോകുന്ന ഒന്നായി അടയാളപ്പെടുത്തിയ സെല്ലുകളിൽ നിന്ന് ആരംഭിക്കുക അതിനാൽ അയൽക്കാർ ഇത് പോലെ S ൽ നിന്ന് 2 മാൻഹട്ടൻ അകലെയുള്ള കോശങ്ങളെ പ്രതിനിധാനം ചെയ്യും അപ്പോൾ നിങ്ങൾ i തുല്യമായി നീങ്ങുന്നു 3 നിങ്ങൾ 2 കൊണ്ട് അടയാളപ്പെടുത്തിയ സെല്ലുകൾ നോക്കുക അയൽവാസികളിലേക്ക് പോകുക 3 3 3 കൂടാതെ 3 അതിനാൽ 3 ൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഏത് സെല്ലും നിങ്ങൾ കാണുന്നു 3 നിങ്ങൾ ഏതെങ്കിലും സെൽ എടുക്കുന്നു നിങ്ങൾ ഇത് എടുക്കുമെന്ന് പറയട്ടെ അതിന് മാൻഹട്ടൻ ദൂരം 3 മുതൽ എസ് വരെ എടുക്കുക മറ്റേതെങ്കിലും 3 1 2 3 അങ്ങനെ ഈ ലേബലുകൾ യഥാർത്ഥത്തിൽ ആരംഭിക്കുന്ന സ്ഥലമായ മാൻഹട്ടൻ ദൂരത്തെ സൂചിപ്പിക്കുന്നു അതിനാൽ നിങ്ങൾ സെല്ലുകൾ ഇതുപോലെ ലേബൽ ചെയ്യുന്നു ടാർഗെറ്റ് സെൽ T അടയാളപ്പെടുത്തുന്നതുവരെ ഈ ലേബലിംഗ് തുടരുന്നു അത് ചെയ്യുന്നതിന് L എണ്ണം ഘട്ടങ്ങൾ ആവശ്യമാണെന്ന് പറയുക അതിനാൽ L ഏറ്റവും ചെറിയ പാതയുടെ ദൈർഘ്യം സൂചിപ്പിക്കും കാരണം മാൻഹട്ടൻ ദൂരവുമായി ബന്ധപ്പെട്ട് ആദ്യം ഒരു വീതിയുള്ള തിരയൽ നടത്തുകയാണ് എല്ലാ സെല്ലുകളും മാൻഹട്ടൻ ദൂരം 1 ദൂരം 2 തുടർന്ന് ദൂരം 3 ഈ രീതിയിൽ സന്ദർശിക്കുന്നു തുടരുക L എന്ന ലേബൽ ഉപയോഗിച്ച് നിങ്ങൾ സെല്ലിൽ എത്തുമ്പോൾ ഞങ്ങൾ ഇതിനകം സെല്ലിൽ എത്തിയിട്ടുണ്ട് L ആണ് നിങ്ങളുടെ ഏറ്റവും കുറഞ്ഞ എണ്ണം എന്ന് പറയാൻ കഴിയും അവിടെ എത്തിച്ചേരാൻ നിങ്ങൾ കടന്നുപോകേണ്ട കോശങ്ങളാണ് ഏറ്റവും ചെറിയ പാത അതിനാൽ നിങ്ങൾക്ക് Tയിൽ എത്താൻ കഴിയുന്നില്ലെങ്കിൽ പ്രക്രിയ പരാജയപ്പെടും അടുത്ത ഘട്ടത്തിൽ ഒരു പുതിയ ഗ്രിഡ് സെല്ലും ലേബൽ ചെയ്യാൻ കഴിയാത്ത ഒരു ഘട്ടത്തിൽ എത്തിച്ചേരും അതിനർത്ഥം പാത്ത് നിലവിലില്ല രണ്ടാമതായി നിങ്ങൾക്ക് M എന്ന ഒരു ഉയർന്ന പരിധി ഉണ്ടെങ്കിൽ നിങ്ങളുടെ പാത M നേക്കാൾ വലുതാകരുത് M എത്തിയിട്ടും പാത ഒന്നും കണ്ടെത്താനായില്ലെങ്കിൽ നു തുല്യമോ വലുതോ ആയ പാത ഇല്ലെന്ന് അനുമാനിക്കാം ഇതാണ് ഘട്ടം 1 ഇപ്പോൾ അത് ലേബൽ ചെയ്ത ശേഷം ഘട്ടം 2 ൽ റിട്രേസ് ഘട്ടം അടങ്ങിയിരിക്കുന്നു അതിനാൽ ടാർഗെറ്റ് സെൽ Tയിൽ നിന്ന് സോഴ്സ് സെല്ലിലേക്ക് ആസൂത്രിതമായി പിന്നോട്ട് പോകുന്നു ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ വരച്ച ഈ ഡയഗ്രം വീണ്ടും നോക്കാം നമുക്ക് ഈ സെൽ പരിഗണിക്കാം അതിനാൽ ഇതാണ് ലക്ഷ്യം എന്ന് നമുക്ക് വിളിക്കാം നിങ്ങൾക്ക് 3 എന്ന ലേബലുള്ള ഒരു സെൽ ലഭിച്ചുകഴിഞ്ഞാൽ 3 മുതൽ 3 വരെ ഒരു ലേബലുള്ള ഒരു സെല്ലിലേക്ക് പോകാൻ ശ്രമിക്കും അതിനാൽ നിങ്ങൾക്ക് ഇവിടെ പോകാം അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ പോകാം ഞാൻ ഇവിടെ പോകാൻ പറയുക ഈ 2 മുതൽ വീണ്ടും നിങ്ങൾ 1 എന്ന് അടയാളപ്പെടുത്തിയ ഒരു സെല്ലിലേക്ക് പോകുക അതിനാൽ ഇവിടെ വീണ്ടും 2 ചോയ്സുകൾ ഉണ്ട് ഒന്നുകിൽ ഇവിടെ പോകാം അല്ലെങ്കിൽ ഇവിടെ വരാം ഞാൻ ഇവിടേക്ക് നീങ്ങുമെന്ന് പറയട്ടെ ഒരിക്കൽ 1 ഉണ്ട് 1 ന്റെ തൊട്ടടുത്ത സെൽ എവിടെയാണെന്ന് കണ്ടെത്താനാണെന്ന് എനിക്കറിയാം അതിനാൽ നിങ്ങൾ തിരിച്ചുവരേണ്ട ക്രമം ഇതാണ് 3 എന്ന് ലേബൽ ചെയ്ത ഒരു സെല്ലിൽ നിന്ന് ആരംഭിച്ച് നിങ്ങൾ 2 ലേബൽ ചെയ്ത സെല്ലിലേക്ക് പോകുന്നു 1 എന്ന് ലേബൽ ചെയ്തിരിക്കുന്നു കൂടാതെ ഓരോ ഘട്ടത്തിലും നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ഒന്നിലധികം ചോയ്സുകളോ സാധ്യതകളോ ഉണ്ടാകും അതിനാൽ ഞാൻ പറഞ്ഞതുപോലെ സെല്ലുകളുടെ ഒരു തിരഞ്ഞെടുപ്പുണ്ട് പക്ഷേ ആവശ്യമെങ്കിൽ അല്ലാതെ ദിശ മാറ്റാൻ ശ്രമിക്കാത്തതുപോലെ നിങ്ങൾക്ക് ചില ലളിതമായ ഹ്യൂറിസ്റ്റിക്സ് പിന്തുടരാനാകും അതിനർത്ഥം വളവുകളുടെ എണ്ണം കുറയ്ക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു എന്നാണ് ഉദാഹരണത്തിന് ഈ T മുതൽ S വരെ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു പാത പിന്തുടരാനാകും എന്നാൽ ഈ ഉദാഹരണത്തിൽ ഏത് പാതയിലും 1 വളവ് ഉണ്ടാകും എന്നാൽ നിങ്ങൾക്ക് S മുതൽ T വരെ ഇതുപോലുള്ള പാത അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊരു പാത ഉണ്ടായിരിക്കാം രണ്ടിനും ഒരേ നീളമുണ്ട് പക്ഷേ രണ്ടാമത്തെ പാതയ്ക്ക് കൂടുതൽ വളവുകളുണ്ട് ഇപ്പോൾ VLSI റൂട്ടിംഗിൽ കുറഞ്ഞ എണ്ണം വളവുകളാണ് നല്ലത് കാരണം ആ സാഹചര്യത്തിൽ പരസ്പരബന്ധത്തിന്റെ വിശ്വാസ്യത കൂടുതലായിരിക്കും അതിനാൽ ഘട്ടം 2 ൽ അവബോധപൂർവ്വം വളവുകളുടെ എണ്ണം കുറയ്ക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു ഘട്ടം 3 ൽ ഒരിക്കൽ നിങ്ങൾ ഒരു പാത കണ്ടെത്തിക്കഴിഞ്ഞാൽ ഘട്ടം 1 ൽ ലേബൽ ചെയ്തിട്ടുള്ള എല്ലാ സെല്ലുകളും തിരിച്ചറിഞ്ഞ പാതയും നിങ്ങൾ മായ്ക്കുന്നു അടുത്ത റൂട്ടിംഗ് ഘട്ടത്തിനായി ഈ സെല്ലുകൾ ഇതിനകം തന്നെ സ്ഥാപിച്ചിരിക്കുന്നതിനാൽ നിങ്ങൾ ഇപ്പോൾ അവയെ തടസ്സങ്ങളായി മാറ്റുന്നു അവർ തടസ്സങ്ങളായി പ്രവർത്തിക്കുകയും ചെയ്യും അതിനാൽവേവ് പ്രൊപഗേഷന് പ്രക്രിയ ഞാൻ വിശദീകരിക്കാൻ ശ്രമിച്ചു തിരയൽ സങ്കീർണ്ണത വേവ് പ്രൊപഗേഷന് പ്രക്രിയയ്ക്ക് തുല്യമാണ് ഇത് ഒരു വിശാലമായ തിരയൽ രീതിയിൽ പോകുന്നു അതിനാൽ നമുക്ക് ഒരു ഉദാഹരണം ഉണ്ടാക്കാൻ ശ്രമിക്കാം എനിക്ക് ഒരു കൂട്ടം ഗ്രിഡ് സെല്ലുകൾ ഉള്ള ഒരു പ്രശ്ന ഉദാഹരണം എടുക്കാം 6 വരികളും 7 അക്കങ്ങളും നിരകളും കറുപ്പിൽ അടയാളപ്പെടുത്തിയ ചില കോശങ്ങൾ ഇതിനകം നിറഞ്ഞിരിക്കുന്നു അവ തടസ്സങ്ങളാണ് റൂട്ടിംഗിനായി നിങ്ങൾക്ക് അവ ഉപയോഗിക്കാൻ കഴിയില്ല ഇതാണ് നിങ്ങളുടെ ഉറവിടം ഇതാണ് നിങ്ങളുടെ ലക്ഷ്യം ഉറവിടത്തിൽ നിന്ന് ലക്ഷ്യത്തിലേക്കുള്ള ഒരു വഴി നിങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ നമുക്ക് ഘട്ടം 1 മുതൽ ആരംഭിക്കാം i 1 നുള്ള ഘട്ടം 1 ഞാൻ പറഞ്ഞതുപോലെ S ൽ നിന്ന് 1 അകലെയുള്ള സെല്ലുകൾ കണ്ടെത്തി അവയെ 1 എന്ന് ലേബൽ ചെയ്യാൻ ഞങ്ങൾ ശ്രമിച്ചു അത്തരം 3 സെല്ലുകൾ ഉണ്ട് അടുത്ത ഘട്ടത്തിൽ 1 ന്റെ അയൽ കോശങ്ങൾ 2 ആയി അടയാളപ്പെടുത്തും അതിനാൽ ഈ സെൽ 2 ആകും ഇത് 2 ഇത് 2 ഇത് 2 ഈ 2 ഇനി അടുത്തതായി 2ന്റെ അയൽപക്കത്തുള്ള സെല്ലുകളെ കണ്ടുപിടിച്ചു 3ആയി ലേബൽ ചെയ്യും വീണ്ടും അടുത്ത ഘട്ടത്തിൽ ഇത് 4 ആകും ഇത് 4 ആകും ഇത് 4 ആകും ഇത് പോലെ 5 ഇത് 5 ഇത് 5 ഇത് 5 ഇത് 5 ആകും അപ്പോൾ ഇത് 6 ആകും 6 ഇത് 6 ആകും ഇത് 6 ആകും ഈ 4 സെല്ലുകൾ 7 1 2 3 4 4 സെല്ലുകൾ 7 ആയിരിക്കും അതിനാൽ ഈ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഈ 7 നിങ്ങൾ ലേബൽ ചെയ്ത സെൽ ലക്ഷ്യത്തോട് ചേർന്നുള്ള ഒരു ഘട്ടത്തിൽ നിങ്ങൾ എത്തിയിരിക്കുന്നുവെന്ന് നിങ്ങൾ കാണുന്നു അതിനാൽ നിങ്ങൾ ലക്ഷ്യത്തിലെത്തി ഇവിടെ നിന്ന് നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ T യിൽ നിന്ന് S വരെയുള്ള പാതയിൽ നിന്ന് വീണ്ടും പോകാം ഇപ്പോൾ നിങ്ങൾക്ക് 2 ഇതരമാർഗ്ഗങ്ങൾ ഉണ്ടെന്ന് കാണാം ഒന്നുകിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു പാത പിന്തുടരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് പിന്തുടരാം അല്ലെങ്കിൽ 7 6 5 എന്നിട്ട് 4 തുടർന്ന് 3 2 1 അതിനാൽ ഇവിടെ നിങ്ങൾക്ക് മറ്റൊരു വളവ് ഉണ്ട് എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ ആവശ്യമില്ലാത്തിടത്തോളം ദിശ മാറ്റരുത് എന്നതാണ് നിയമം അതിനാൽ 7 മുതൽ അടുത്തുള്ള സെൽ 6 കണ്ടെത്താൻ ഞങ്ങൾ ശ്രമിക്കുന്നു അത് സമാന ദിശയിലാണ് ഇതാണ് റിട്രേസ് ഘട്ടം അപ്പോൾ 6 ഇൽ നിന്നും 5 എന്ന ലേബൽ ഉള്ള ഒരു സെൽ കണ്ടെത്താൻ ശ്രമിക്കുന്നു അവിടെ നിന്നും 4 അപ്പോൾ നിങ്ങൾ ഒരേ ദിശയിൽ ഒന്നുമില്ലെന്ന് കാണുന്നു അപ്പോൾ നിങ്ങൾ 3 ലേബലുള്ള ഒരു അയൽക്കാരനെ തിരയുന്നു അതാണ് ഈ വശത്ത് 3 തുടർന്ന് വീണ്ടും 2 നോക്കുക 1 നോക്കുക അപ്പോൾ S തൊട്ടടുത്താണെന്ന് ഞങ്ങൾക്കറിയാം അതിനാൽ നിങ്ങൾക്ക് ശരിയായ പാത ലഭിച്ചു അതിനാൽ ഇത് നിങ്ങളുടെ ഘട്ടം 2 ആണ് ഇപ്പോൾ ഈ ഘട്ടം പൂർത്തിയായ ശേഷം മൂന്നാം ഘട്ടത്തിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് മൂന്നാം ഘട്ടം നിങ്ങൾ എല്ലാ ലേബലുകളും ഞാൻ പറഞ്ഞതും മായ്ക്കുന്നു നിങ്ങൾ കണ്ടെത്തിയ ഏത് വഴിയും ഇപ്പോൾ തടസ്സങ്ങളായി അടയാളപ്പെടുത്തും ഇപ്പോൾ അടുത്ത ഘട്ടത്തിൽ നിങ്ങൾക്ക് മറ്റൊരു ജോഡി ഉണ്ടായിരിക്കാം ഈ സെൽ നിങ്ങളുടെ ഉറവിടമായിരിക്കുമെന്ന് പറയട്ടെ ഈ സെൽ നിങ്ങളുടെ ടാർഗെറ്റായിരിക്കും തുടർന്ന് ഈ സെല്ലുകൾ ടാർഗെറ്റായി അടയാളപ്പെടുത്തുന്ന ഉറവിടത്തിൽ നിന്ന് ഞങ്ങൾ വീണ്ടും വേവ് ഫ്രണ്ട് പ്രൊപഗേഷന് ആരംഭിക്കും ഇപ്പോൾ സങ്കൽപ്പത്തിൽ ലളിതമായിട്ടുള്ള ഒരു രീതി ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് കാണുക അത് നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ദൈർഘ്യമുള്ള പരിഹാരം അല്ലെങ്കിൽ അത് കണ്ടെത്താൻ കഴിയുമ്പോഴെല്ലാം ഏറ്റവും കുറഞ്ഞ പാത നൽകുമെന്ന് ഉറപ്പ് നൽകുന്നു കാരണം നിങ്ങൾ ഓരോ ഘട്ടത്തിലും സമാന്തരമായി എല്ലാ പാതകളും പര്യവേക്ഷണം ചെയ്യുന്നു ദൂരം 1 ദൂരം 2 ദൂരം 3 i അകലെയുള്ള എല്ലാ സെല്ലുകളും ഞങ്ങൾ സമാന്തരമായി പരിഗണിക്കുന്നു അതിനാൽ ഒരു പടിക്ക് ശേഷം നീളം 1 എന്നതിന്റെ ഏറ്റവും ചെറിയ പാത നിലവിലുണ്ടെങ്കിൽ ആ വഴി നിങ്ങൾ കണ്ടെത്തുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട് അത് ആ പോയിന്റിൽ സ്പർശിക്കും അതിനാൽ അടുത്ത പ്രഭാഷണത്തിൽ മെമ്മറി ആവശ്യകത പോലെയുള്ള പ്രശ്നങ്ങളെ പറ്റി നോക്കാം അതുപോലെ തന്നെ ഈ അൽഗോരിതത്തിന്റെ സ്റ്റോറേജ് കോംപ്ലക്സിറ്റിയെ പറ്റിയും സമയം എങ്ങനെ ലാഭിക്കാം എന്നതിനെ പറ്റിയും ചർച്ച ചെയ്യാം